നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി എന്ന കോഴ്സിലെ പത്താമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ലെക്ച്ചറുകളിലായി AFM ഉപയോഗപ്പെടുത്തിയുള്ള പ്രോട്ടീനുകളുടെ അൺ ഫോൾഡിങ് പഠനങ്ങളുടെ സാധ്യതയും ഫൈബ്രോനെക്റ്റിൻ എന്ന പ്രോട്ടീനിനെ ഒരു ഉദാഹരണമായെടുത്ത് നിയതമായ ഫോഴ്സുകളുടെ പ്രഭാവത്തിൽ പ്രകടമാകുന്ന അൺ ഫോൾഡിങ് പ്രക്രിയകളുടെ ചലനാത്മക സ്വഭാവവൈശിഷ്ട്യവും നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ആദ്യമായി ഇതുവരെ നിരീക്ഷിച്ച വസ്തുതകളെ ലഘുവായി സംക്ഷേപിച്ചു പുനരാഖ്യാനം നടത്തി നമുക്ക് പ്രസ്തുത ലെക്ച്ചറിലേക്ക് പ്രവേശിക്കാം ഇതിന്റെ ഭാഗമായി ഒരു സോ ടൂത് പ്രൊഫൈൽ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി പ്രോട്ടീൻ അൺ ഫോൾഡിങ് പ്രക്രിയകളെ കുറിച്ച് പഠനം നടത്തുന്നതിനായി വിരളമായ അളവിൽ മാത്രമാണ് നമ്മൾ പ്രോട്ടീൻ ഉപയോഗപ്പെടുത്തുന്നത് ഇത് പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ AFM ലൂടെ പ്രോട്ടീനിനെ പുൾ ചെയ്യുന്നത് പ്രസ്തുത സന്ദർഭത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സോ ടൂത് പ്രൊഫൈൽ ഏതാണ്ട് ഇതുപോലിരിക്കും ഇവിടെ നിങ്ങൾക്ക് നാല് പീക്കുകൾ ദൃശ്യമാണ് ഇതിൽ കാണപ്പെടുന്ന പ്രഥമഃ പീക്ക് പ്രതലത്തിന്റെ ഉപരിതലത്തിൽ നിന്നും പ്രോട്ടീൻ വേർപെടുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ അന്തിമ പീക്കാകട്ടെ മേല്പറഞ്ഞ പ്രോട്ടീൻ ടിപ്പിന്റെ അഗ്രത്തിൽ നിന്നും അടർന്ന് വരുന്നതിന്റെ സൂചകമാണ് അടിസ്ഥാനപരമായി മധ്യത്തിലായി കാണപ്പെടുന്ന ഈ രണ്ട് പീക്കുകളാണ് നമ്മിൽ താല്പര്യം ജനിപ്പിക്കുന്ന ഡാറ്റ പീക്കുകൾ ഉദാഹരണത്തിന് സമാനമായ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പത്ത് പീക്കുകൾ ലഭ്യമായെന്ന് സങ്കൽപ്പിക്കുക മേല്പറഞ്ഞ പത്ത് പീക്കുകളെ 82 എന്ന അനുപാതത്തിൽ നമുക്ക് ഖണ്ഡിക്കാവുന്നതാണ് കാരണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ പീക്കുകൾ അക്ഷരാർത്ഥത്തിൽ പ്രോട്ടീൻ അൺ ഫോൾഡിങ് എന്ന പ്രക്രിയയെ അല്ല മറിച്ച് അവയുടെ ഡിറ്റാച്ച്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് ശേഷിക്കുന്ന എല്ലാ എട്ട് പീക്കുകളും പ്രോട്ടീൻ അൺ ഫോൾഡിങുമായി യോജിക്കുന്നതാണ് എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഈ കാണുന്ന പുള്ളിങ് എക്സ്പെരിമെൻറ് നടത്തുകയാണെന്ന് സങ്കൽപ്പിക്കുക അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് എട്ട് പീക്കുകൾ ലഭ്യമായെന്ന് കരുതുക എല്ലാ സമയത്തും മേല്പറഞ്ഞത് പോലെ എട്ട് പീക്കുകൾ തന്നെ ലഭ്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിനുള്ള കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് പോലെ പ്രോട്ടീൻ ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവയുടെ ഏത് ഭാഗങ്ങളിൽ ടിപ്പ് സമ്പർക്കം പുലർത്തുമെന്നതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നതിനാലാണ് ഒന്നുകിൽ നിങ്ങൾക്ക് M എണ്ണം ഫോൾഡഡ് ഡൊമെയ്നുകൾ ലഭ്യമാകാം അല്ലെങ്കിൽ M2 എണ്ണം പീക്കുകൾക്ക് തത്തുല്യമായ നിരക്കിൽ പീക്കുകൾ ലഭ്യമാകാം പ്രോട്ടീനിന്റെ ഏതെങ്കിലും ഒരറ്റവുമായി ടിപ്പ് ബന്ധപ്പെടുമ്പോൾ പരമാവധി നമുക്ക് M2 എണ്ണം പീക്കുകൾ ലഭ്യമാകുന്നുണ്ട് മറ്റെല്ലാ സാഹചര്യങ്ങളിലും പീക്കുകളുടെ എണ്ണം കുറവാകാൻ സാധ്യത ഏറെയാണ് നാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വസ്തുതയാണിത് ഇനി നിങ്ങൾക്ക് പീക്ക് ലഭ്യമായെന്ന് തന്നെ സങ്കൽപ്പിക്കുക ആദ്യപടിയായി ഡാറ്റ രൂപപ്പെടുത്തിയതിന് ശേഷം അതിനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം നിങ്ങളുടെ കൈവശമുള്ള പ്രോട്ടീനിന് M ഡൊമെയ്നുകൾ ഉണ്ടെന്ന് കരുതുക അതിൽ നിന്നും M2 എണ്ണം ഫോഴ്സ് പീക്കുകൾ ലഭ്യമായെന്ന് സങ്കൽപ്പിക്കുക അക്ഷരാർത്ഥത്തിൽ M എണ്ണം പീക്കുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനാകും എന്നാൽ വളരെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമെന്തെന്നാൽ മേല്പറഞ്ഞ പീക്കുകളെ നിർദ്ദിഷ്ട ഡൊമെയ്നുകൾക്ക് ആധാരമായി നിയോഗിക്കുന്നതെങ്ങനെ എന്നുള്ളതാണ് മേല്പറഞ്ഞ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് എന്നിങ്ങനെ M വരെ നിശ്ചിത എണ്ണം ഡൊമെയ്നുകളുണ്ട് ഒപ്പം F1 F2 എന്നിങ്ങനെ FM വരെ തുല്യമായ നിരക്കിൽ ഫോഴ്സ് പീക്കുകളും ലഭ്യമാണ് കാരണം മേൽ സൂചിപ്പിച്ച സാഹചര്യത്തിൽ ഒന്നാമത്തെ ഡൊമെയ്ൻ എന്നത് F2 നെയാണോ അല്ലെങ്കിൽ FM നെയാണോ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയുവാൻ സാധിക്കുകയില്ല ഒരു കൃത്യമായ ധാരണ നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആയതിനാൽ നമുക്ക് മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയാണ് നിങ്ങളുടെ കൈവശം തുല്യമായ സ്ഥിരതയുള്ള മൂന്ന് ഡൊമെയ്നുകൾ കാണപ്പെടുന്ന ഒരു ലളിതമായ പ്രോട്ടീൻ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഏതാണ്ട് എല്ലാ ഡൊമെയ്നുകളിലും ഒരേ സമയം ഒരു പോലെ അൺ ഫോൾഡിങ് സംഭവ്യമാകുന്ന ഒരവസ്ഥ എന്നാണ് തുല്യ സ്ഥിരത എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് തുല്യ സ്ഥിരതയുള്ളതാണെങ്കിലും മേല്പറഞ്ഞ ഡൊമെയ്നുകളുടെ ദൈർഘ്യം വ്യത്യസ്തമായിരിക്കും മേൽ സൂചിപ്പിച്ച മൂന്ന് ഡൊമെയ്നുകളും ഒന്നൊന്നായി ഞാൻ ചിത്രീകരിക്കുവാൻ പോകുകയാണ് വലുപ്പത്തിൽ ഓരോ ഡൊമെയ്നുകളും വിഭിന്നമാണെങ്കിലും അവ അൺ ഫോൾഡ് ചെയ്യുന്നതിന് ആവശ്യമായ ഫോഴ്സ് നിയതമായിരിക്കും ഡൊമെയ്നുകളുടെ ദൈർഘ്യം വ്യത്യാസപ്പെടുന്നു എന്നതിനർത്ഥം ഡൊമെയ്നുകൾ പരസ്പരം വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് മേല്പറഞ്ഞ ഫോഴ്സ് കർവിന്റെ സോ ടൂത് പാറ്റേൺ ഏതാണ്ട് ഇപ്രകാരമിരിക്കും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് പോലെ രണ്ടറ്റങ്ങളിലേയും പീക്കുകൾ അതായത് ഈ കാണുന്ന ആദ്യത്തെയും അവസാനത്തെയും പീക്കുകൾ ഞാൻ നിരുപാധികം അവഗണിക്കുകയാണ് എന്നിരുന്നാലും എനിക്ക് മുൻപിൽ മൂന്ന് പീക്കുകൾ അവശേഷിക്കുന്നതായി നമുക്ക് കാണാനാകും ഈ കാണുന്ന മൂന്ന് പീക്കുകളെ സംബന്ധിച്ചിടത്തോളം അവയിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സിന്റെ വ്യാപ്തി തുല്യമാണെങ്കിലും അവയുടെ നീളം വ്യത്യസ്തമായിരിക്കും എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരൊറ്റ ഡൊമെയ്ൻ മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇപ്രകാരമൊരു പീക്കാണ് ലഭ്യമാകുക ഈ കാണുന്ന പീക്കിൽ നിന്നും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുക ഒന്ന് അൺ ഫോൾഡിങ് പ്രക്രിയയ്ക്ക് ആവശ്യമായ ഫോഴ്സാണ് മറ്റൊന്ന് അൺ ഫോൾഡ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള നീളവും ഈ കാണുന്ന X ആക്സിസിൽ നിന്നും അൺ ഫോൾഡ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള നീളവും Y ആക്സിസിൽ നിന്നും അൺ ഫോൾഡിങ് ഫോഴ്സും നമുക്ക് ലഭ്യമാകുന്നു മേല്പറഞ്ഞ സാഹചര്യത്തിൽ ഓരോ ഡൊമെയ്നിനും തുല്യസ്ഥിരതയുള്ള സന്ദർഭമാണ് നമ്മൾ കണക്കിലെടുത്തിരിക്കുന്നത് ആയതിനാൽ അൺ ഫോൾഡിങ് പ്രക്രിയയ്ക്ക് നിധാനമാകുന്ന ഫോഴ്സുകളുടെ വ്യാപ്തി സമാനമായിരിക്കും എന്നാൽ അവ അൺ ഫോൾഡ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള നീളം വിഭിന്നമായിരിക്കും ഈ കാണപ്പെടുന്നത് പ്രാതിനിത്യമുള്ള ഒരു ഡാറ്റാ പോയിന്റാണ് ഒന്നിലധികം തവണ ഗണിച്ചാൽ മാത്രമേ ഇതിന്റെ സ്ഥിതിവിവരക്കണക്കുകൾ നമുക്ക് നിർണ്ണയിക്കുവാൻ സാധിക്കുകയുള്ളു ഇവിടെ ഞാൻ രണ്ട് ഹിസ്റ്റോഗ്രാമുകൾ വരച്ചിട്ടുണ്ട് അതിൽ ഒന്ന് അൺ ഫോൾഡിങ് ഫോഴ്സിനെയും മറ്റേത് അൺ ഫോൾഡിങ് ലെങ്തിനെയുമാണ് സൂചിപ്പിക്കുന്നത് മേല്പറഞ്ഞ സാഹചര്യത്തിൽ ഓരോ ഡൊമെയ്നിനും തുല്യസ്ഥിരതയുള്ള സന്ദർഭമാണ് നമ്മൾ കണക്കിലെടുത്തിരിക്കുന്നത് ഇവിടെ അൺ ഫോൾഡിങ് പ്രക്രിയയ്ക്ക് നിധാനമാകുന്ന ഫോഴ്സുകളുടെ വ്യാപ്തി സമാനമായിരിക്കുമെന്നതിനാൽ ഒരേയൊരു ഫോഴ്സ് പീക്ക് മാത്രമാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത് നിരവധി സന്ദർഭങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന സ്ഥിതിവിവരക്കണക്കുകൾ ആയതിനാൽ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഡൊമെയ്നുകൾക്ക് നിയതമായ നീളമുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വ്യതിരിക്ത ഹിസ്റ്റോഗ്രാമുകൾ ലഭ്യമാകുന്നതായി കാണാം ഇവയുടെ പീക്കുകൾ തമ്മിൽ വ്യക്തമായ അകലം പാലിക്കപ്പെടുന്നതായി നമുക്ക് ദൃശ്യമാകുന്നുണ്ട് മേല്കാണുന്ന ഹിസ്റ്റോഗ്രാമുകളിൽ നിന്നും ശരാശരി തുകകൾ ഗണിക്കാനായാൽ ഇവയുടെ നീളം നമുക്ക് കൃത്യമായി കണ്ടെത്താനാകും എന്നതാണ് വസ്തുത തത്ക്കാലം നമുക്കിവയെ L1 L2 L3 എന്നിങ്ങനെ വിശേഷിപ്പിക്കാം L1 ഉം L3 ഉം ഏറ്റവും ചെറുതും വലുതുമായ ഡൊമെയ്നുകളുടെ അൺ ഫോൾഡ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള നീളമാണ് എന്നാൽ L2 ആകട്ടെ ഇവയ്ക്ക് രണ്ടിനുമിടയിൽ നിലകൊള്ളുന്ന ഡൊമെയ്നിന്റെ അൺ ഫോൾഡിങ് ലെങ്താണ് എന്താണീ അൺ ഫോൾഡഡ് ലെങ്ത് ഡൊമെയ്നുകളിലെ റെസിഡ്യൂസിന്റെ എണ്ണത്തിനെ കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ മേല്പറഞ്ഞ അൺ ഫോൾഡഡ് ലെങ്ത് എന്നത് റെസിഡ്യൂസിന്റെ എണ്ണം ഗുണിതം 0 38 നാനോമീറ്റർറെസിഡ്യൂ എന്നതിന് തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതിലൂടെ നമുക്ക് നേരിട്ട് തന്നെ മേൽ സൂചിപ്പിച്ച അൺ ഫോൾഡഡ് ലെങ്ത് കണ്ടെത്താവുന്നതാണ് നമുക്ക് ഒന്ന് ഗണിച്ചു നോക്കാം പരീക്ഷണാത്മകമായി നിങ്ങൾ കണക്കാക്കുന്ന അൺ ഫോൾഡഡ് ലെങ്ത് ഈ കാണപ്പെടുന്ന വലുതോ ചെറുതോ ആയ ഏതെങ്കിലും മൂല്യവുമായി പൊരുത്തപ്പെടുകയാണെങ്കിൽ മേല്പറഞ്ഞ ഡൊമെയ്നിന്റെ നീളമായി ഈ കാണുന്ന L നെ നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ് ഇത് പോലെ നമുക്ക് മറ്റെല്ലാതും സമാനമായ രീതിയിൽ കണ്ടെത്താവുന്നതാണ് ലളിതമായ സന്ദർഭങ്ങളിൽ മേൽ സൂചിപ്പിച്ച നടപടി ക്രമമാണ് നമ്മൾ പിന്തുടരേണ്ടത് ഉദാഹരണത്തിന് ഒരേ പെപ്റ്റൈഡ് കൊണ്ടുള്ള നിരന്തരം ആവർത്തിക്കുന്ന യൂണിറ്റുകളുള്ള ഒരു എഞ്ചിനീയേർഡ് പോളിപെപ്റ്റൈഡ് നിങ്ങളുടെ കൈവശമുണ്ടെന്ന് കരുതുക എന്നാൽ ഒന്നിലധികം ഡൊമെയ്നുകൾ ഉണ്ടെങ്കിൽ മേല്പറഞ്ഞ സമീപനം പ്രാവർത്തികമാകണമെന്നില്ല സമാനദൈർഘ്യമുള്ള ഒന്നിലധികം ഡൊമെയ്നുകൾ ഉണ്ടെങ്കിലും ഇത് സാധ്യമാകണമെന്നില്ല എന്നാൽ ഫോഴ്സ് വിഭിന്നമാണെങ്കിലും അവയുടെ നീളം സമാനമാണെങ്കിൽ മേല്പറഞ്ഞ സമീപനം തീർത്തും പ്രാവർത്തികമാണ് എന്നതാണ് വസ്തുത ഡൊമെയ്നിന്റെ സ്ഥിരതയെ കുറിച്ചൊരു അടിസ്ഥാനവിവരണം ലഭ്യമായാൽ നമുക്ക് പീക്കുകൾ നിർണ്ണയിക്കുക സാമാന്യം എളുപ്പമാകുന്നു താരതമ്യപ്പെടുത്താവുന്ന ദൈർഘ്യമുള്ള ഒന്നിലധികം ഡൊമെയ്നുകളുള്ള അവസ്ഥയിൽ നേരത്തെ സൂചിപ്പിച്ച സമീപനം പ്രായോഗികമാകണമെന്നില്ല ഇത്തരം സന്ദർഭങ്ങളിൽ പോളിപ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രോട്ടീൻ എൻജിനീയറിങ് എന്ന വിദ്യ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നിരന്തരം ആവർത്തിക്കുന്ന യൂണിറ്റുകളുള്ള അല്ലെങ്കിൽ സമാനമായ ഡൊമെയ്നുകളുള്ള ഒരു പ്രോട്ടീൻ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് സങ്കൽപ്പിക്കുക ഇതിനായി നമുക്ക് ഫൈബ്രോനെക്റ്റിന്റെ കാര്യം തന്നെയെടുക്കാം അവയിൽ ഉൾപ്പെടുന്ന FN 3 ക്ക് മാത്രം 15 ഡൊമെയ്നുകളുണ്ട് മേല്പറഞ്ഞ പ്രോട്ടീനിനെ ഞാൻ പുൾ ചെയ്യുകയാണെന്ന് കരുതുക ഇതിന് നിയതമായൊരു Z പൊസിഷനുണ്ട് മേൽസൂചിപ്പിച്ച രീതിയിൽ ഈ നീണ്ട പ്രോട്ടീനിനെ ഞാൻ വലിക്കുകയാണെങ്കിൽ ഈ കാണപ്പെടുന്നത് പോലെ ഒന്നിലധികം പീക്കുകൾ നമുക്ക് ദൃശ്യമാകുന്നു ഈ കാണുന്ന എല്ലാ 15 ഡൊമെയ്നുകളും ഞാൻ വരയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നിരുന്നാലും സമാനമായ നീളവും ഫോഴ്സും ഉൾകൊള്ളാൻ തക്കരീതിയിൽ ഒട്ടനേകം പീക്കുകൾ നമുക്ക് ഇവിടെ ദൃശ്യമാകുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പീക്കുകൾ നിർണ്ണയിക്കുക എന്നത് തീർത്തും ശ്രമകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇതിന്റെ ഭാഗമായി നാം ഒരു പ്രോട്ടീനിനെ തന്നെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് മേല്പറഞ്ഞ പ്രോട്ടീനിൽ FN 3 എന്ന ഡൊമെയ്ൻ നിരന്തരം ആവർത്തിക്കുന്നത് പോലെയാണ് നമ്മൾ സജ്ജീകരിക്കേണ്ടത് നിങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്ത പ്രോട്ടീനാണിത് പ്രോട്ടീൻ എഞ്ചിനീയറിങ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഒന്നിലധികം ഡൊമെയ്നുകൾ ആവർത്തിക്കുന്നവ ഉണ്ടാവാം അത്തരമൊരു സന്ദർഭം തന്നെ നമുക്ക് കണക്കിലെടുക്കാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടീൻ രൂപകൽപന ചെയ്തു കഴിഞ്ഞിരിക്കുന്നു മേല്പറഞ്ഞ പോളിപ്രോട്ടീൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ സർക്കുലർ ഡൈക്രോയിസം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവയ്ക്കുള്ളിലെ ഫോൾഡുകൾ സുസ്ഥിരമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ് AFM ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ പ്രസ്തുത പ്രോട്ടീനിന്റെ സ്ഥിരത പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നതാണ് വസ്തുത A A A A എന്ന യൂണിറ്റ് നിരന്തരം ആവർത്തിക്കുന്ന ഒരു പ്രോട്ടീനാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് നീളമേറിയ ഒരു പ്രോട്ടീനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അവ ഫോൾഡ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഉദാഹരണത്തിന് AFM ഉപയോഗപ്പെടുത്തി ഒരു പരീക്ഷണം നിങ്ങൾ നടത്തിയെന്ന് സങ്കൽപ്പിക്കുക എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായ സിഗ്നലുകളൊന്നും ലഭ്യമായില്ല എന്ന് വിചാരിക്കുക മേല്പറഞ്ഞ സാഹചര്യത്തിലേക്ക് നയിക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് ഒരു സൂചന എന്തെന്നാൽ ഞാൻ ഇവിടെ ചിത്രീകരിക്കുന്നത് പോലെ പ്രോട്ടീൻ വളരെ അസ്ഥിരമാണെന്നതായിരിക്കാം ഒരു പക്ഷെ അവ ശരിയായ രീതിയിൽ ഫോൾഡ് ചെയ്യുന്നില്ലായിരിക്കാം ആയതിനാൽ പ്രോട്ടീൻ സുസ്ഥിരമായി അനുവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ധർമ്മം നമ്മളിൽ നിക്ഷിപ്തമാണ് ഇത് നമുക്ക് ബയോകെമിസ്ട്രിയിൽ ലഭ്യമായ വിവിധയിനം ടൂളുകൾ പ്രയോജനപ്പെടുത്തി നിർവ്വഹിക്കാവുന്നതാണ് മേല്പറഞ്ഞ സാഹചര്യം വിഭിന്നമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ പ്രോട്ടീൻ അസ്ഥിരമാകാനുള്ള സാധ്യതയാണ് ഒന്ന് മറ്റൊന്ന് പ്രോട്ടീൻ സൂപ്പർ സ്റ്റേബിൾ ആകാനുള്ള സാധ്യതയാണുള്ളത് ഇത്തരമൊരു സന്ദർഭത്തിൽ പ്രോട്ടീൻ അൺ ഫോൾഡ് ചെയ്യുന്നതിനായി ഏറെ ശക്തമായ ഫോഴ്സിന്റെ സ്വാധീനം ആവശ്യമാണ് ഇത് നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് സംഭവിക്കുന്നത് പ്രോട്ടീൻ സ്ഥിരതയുള്ളതാണെന്നുള്ള ധാരണ നമുക്കുണ്ടെങ്കിലും എന്തുകൊണ്ട് നമുക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല അതിനുള്ള കാരണം ഇതാണ് നിങ്ങൾക്ക് മുൻപിൽ നിയതമായ ഒരു പ്രതലവും അതിന് മുകളിൽ നിലയുറപ്പിച്ച ഒരു പ്രോട്ടീനുമുണ്ടെന്ന് സങ്കൽപ്പിക്കുക മേല്പറഞ്ഞ പ്രോട്ടീനിനെ വലിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതാണ്ട് ഇത്തരമൊരു രൂപഘടനയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ടിപ്പ് ഇപ്പോൾ മുകളിലേക്ക് നീങ്ങുകയാണ് ഇത് ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ പ്രോട്ടീനിനെ പുൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഡൊമെയ്നിനെ യഥായോഗ്യം അൺ ഫോൾഡ് ചെയ്യാൻ മാത്രം ശക്തമായ ഒരു ഫോഴ്സിന്റെ സ്വാധീനമുണ്ടെങ്കിലേ ടിപ്പിന് പ്രോട്ടീനിനെ വലിക്കുവാൻ സാധിക്കുകയുള്ളൂ മേല്പറഞ്ഞ സന്ദർഭത്തിൽ ഇത് അനുവദനീയമാണ് നിങ്ങൾക്ക് മുൻപിലുള്ള സാഹചര്യമിതാണ് വ്യക്തിഗത ഡൊമെയ്നുകളെ യഥായോഗ്യം അൺ ഫോൾഡ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഫോഴ്സുകളേക്കാൾ അതിശക്തമായ ഒരു ഫോഴ്സിന്റെ പ്രഭാവത്തിൽ മാത്രമേ ടിപ്പിൽ നിന്നും പ്രോട്ടീനിനെ വേർപെടുത്താൻ സാധിക്കുകയുള്ളൂ അതിനായുള്ള മാനദണ്ഡമിതാണ് മേല്പറഞ്ഞ പ്രസ്താവന നമുക്ക് ഒന്ന് കൂടി സശ്രദ്ധം വായിച്ചുനോക്കാം പ്രോട്ടീൻ അൺ ഫോൾഡ് ചെയ്യപ്പെടുക എന്നാൽ പരീക്ഷണങ്ങളിലൂടെ അവയുടെ അൺ ഫോൾഡിങ് സിഗ്നേച്ചർ കണ്ടെത്തുക എന്നാണ് അർത്ഥമാക്കുന്നത് പ്രോട്ടീനിനെ ടിപ്പിൽ നിന്നും വേർപെടുത്താനുതകുന്ന ഒരു ഫോഴ്സിന്റെ പ്രഭാവത്തിൽ മാത്രമേ പ്രോട്ടീനിന്റെ അൺ ഫോൾഡിങ് സാധ്യമാകുകയുള്ളൂ എന്നതാണ് വസ്തുത ഒരേ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്പ്രിങുകൾക്ക് സമാനമായ ഒരു സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് തീർത്തും ദുർബ്ബലമായ കണ്ണികളാണ് ആദ്യം വേർപെടുന്നത് ഒരു ഡൊമെയ്നിനെ അൺ ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന ഫോഴ്സെന്നത് ടിപ്പും പ്രോട്ടീനും തമ്മിലുള്ള എഡ്ഹെഷൻ ഫോഴ്സിനെക്കാൾ ശക്തമാണെങ്കിൽ സ്വാഭാവികമായും ടിപ്പിൽ നിന്നും പ്രോട്ടീൻ വേർപെടുന്നതായി നമുക്ക് കാണാനാകും ഇവിടെ നിങ്ങൾക്ക് സിഗ്നലുകൾ ഒന്നും ദൃശ്യമായില്ലെങ്കിലും രണ്ട് ഡിറ്റാച്ച്മെന്റ് പീക്കുകൾ ലഭ്യമാകുന്നതായി കാണാം മേല്പറഞ്ഞ പ്രത്യേക സാഹചര്യത്തിൽ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കുന്നത് ഇത് പ്രതലത്തിന്റെ ഉപരിതലത്തിൽ നിന്നും പ്രോട്ടീൻ വേർപെടുന്നതും ഫൂട്ടിങിൽ നിന്നും ടിപ്പ് അടരുന്നതുമായി നിർലോഭം ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമുള്ള പ്രോട്ടീനിന്റെ ഡൊമെയ്നുകൾ വളരെയധികം സുസ്ഥിരമാണെങ്കിലും മേൽ സൂചിപ്പിച്ചത് പോലെ യാതൊരു തരത്തിലുള്ള സിഗ്നലുകളും നമുക്ക് ലഭ്യമാകണമെന്ന് നിർബന്ധമില്ല ഇവിടെ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് പ്രോട്ടീൻ തീർത്തും അസ്ഥിരമാണ് എന്നതിനാൽ നമുക്ക് കാര്യമായി ഒന്നും കാണുന്നില്ല എന്നതാണ് മറ്റൊന്ന് പ്രോട്ടീൻ വളരെയധികം സൂപ്പർ സ്റ്റേബിളാണ് എന്ന സ്ഥിതിവിശേഷമാണുള്ളത് മറ്റൊരു സന്ദർഭമെന്തെന്നാൽ അൺ ഫോൾഡിങ് ഫോഴ്സുകളുടെ വ്യാപ്തി ഉപകരണത്തിന്റെ റെസല്യൂഷൻ പരിധിയേക്കാൾ താഴ്ന്ന നിരക്കിൽ നിലകൊള്ളുന്നു എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫോഴ്സ് സ്കെയിലിൽ നിങ്ങൾക്ക് 20 പൈക്കോന്യൂട്ടൺ റിസോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ മേല്പറഞ്ഞ പരിധിയിൽ താഴെ വരുന്നതൊന്നും നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയണമെന്നില്ല 25 പൈക്കോന്യൂട്ടനാണ് ഏറ്റവും കുറഞ്ഞ പരിധി ആയതിനാൽ ഈ പരിധിയിൽ താഴെ വരുന്ന പീക്കുകൾക്ക് സ്പെക്ട്ര ലഭ്യമാകണമെന്നില്ല ഇവിടെ നിങ്ങൾ അധികം ശ്രദ്ധ ചെലുത്താത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമായെന്ന് വരാം മേൽ സൂചിപ്പിക്കപ്പെട്ടത് പോലെ അൺ ഫോൾഡിങ് ഫോഴ്സുകളുടെ തീവ്രത കുറയുന്ന ഒരു സന്ദർഭമാണിത് മാത്രമല്ല പ്രസ്തുത ഉപകരണത്തിന് അവ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് വിശദമായി പഠനം നടത്താൻ സാധ്യമാകുന്ന മറ്റൊരു വിശാലമായ മേഖല ഇവിടെ ലഭ്യമാണ് എന്നതാണ് വസ്തുത ഇതിൽ നടത്തുന്ന പഠനങ്ങളിലൂടെ നിങ്ങൾക്ക് അൺ ഫോൾഡിങ് സ്പെക്ട്രയെ കുറിച്ച് വ്യക്തമായ ധാരണ ഉളവാകുന്നു നിയതമായൊരു പ്രോട്ടീൻ കൺസ്ട്രക്ടിന്റെ രൂപകൽപനയാണ് നമുക്ക് മുൻപിലുള്ള അടുത്ത നടപടി യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പോളിപ്രോട്ടീനാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് യാതൊരു സിഗ്നലും ലഭ്യമായിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ട് നമുക്ക് സിഗ്നൽ ലഭ്യമാകുന്നില്ല എന്നതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇവയിൽ നിങ്ങളുടെ പ്രോട്ടീനിനെ ബാധിക്കുന്നതേത് എന്ന് കണ്ടെത്തുക തീർത്തും പ്രയാസകരമായ ഒരു ദൌത്യം തന്നെയാണ് ആയതിനാൽ സാധാരണഗതിയിൽ മറ്റ് പരീക്ഷണങ്ങളെ മുൻനിർത്തി നിങ്ങളുടെ പ്രോട്ടീൻ സുസ്ഥിരമായാണ് ഫോൾഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു ഇതിനായി A A A A യൂണിറ്റുകൾ മാത്രമുള്ള ഒരു പോളിപ്രോട്ടീനിന് പകരം A B എന്നിങ്ങനെ രണ്ട് ഘടകങ്ങളുള്ള ഒരു പ്രോട്ടീനാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഇവിടെ B യുടെ അൺ ഫോൾഡിങ് സിഗ്നേച്ചറിനെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായ ധാരണ ലഭ്യമാണ് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ആയതിനാൽ A യുടെ അൺ ഫോൾഡിങ് സിഗ്നേച്ചർ ലഭ്യമായില്ലെങ്കിലും B യുടെ സിഗ്നൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് എന്നതാണ് വസ്തുത ഒരു സാധ്യതയെന്തെന്നാൽ ഒരു പക്ഷെ A യുടെ അൺ ഫോൾഡിങ് ഫോഴ്സ് തീർത്തും അപ്രസക്തമായതിനാലാകാം അവയെ നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് ഒരു മൾട്ടി പ്രോട്ടീൻ രൂപകൽപന ചെയ്യുമ്പോൾ A A A A എന്ന ശ്രേണിക്ക് ശേഷം B B B B എന്ന ശ്രേണി ഉൾപ്പെടുത്തണോ അതോ A B A B A B A B എന്ന മാതൃകയിൽ ശ്രേണി രൂപീകരിക്കണോ എന്നത് തീർത്തും പ്രസക്തമായൊരു ചോദ്യമാണ് ചുരുക്കിപ്പറഞ്ഞാൽ A n തവണ ആവർത്തിച്ചതിന് ശേഷം മാത്രം B n തവണ ആവർത്തിക്കുന്ന ഒരു ശ്രേണി രൂപപെടുത്തണോ അതോ AB എന്ന ഘടകം n തവണ ആവർത്തിക്കുന്ന ശ്രേണിയാണോ രൂപകൽപന ചെയ്യേണ്ടത് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു ആയതിനാൽ പ്രോട്ടീൻ കൃത്യതയോടെയാണോ ഫോൾഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ സഹായകമാകുന്ന രീതിയിലാകണം n ന്റെ മൂല്യം നമ്മൾ നിർണ്ണയിക്കേണ്ടത് മേല്പറഞ്ഞ മൂല്യം ഒരു സന്ദർഭത്തിൽ 3 എന്നാണെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അത് 4 എന്ന് നമുക്ക് ലഭ്യമായേക്കാം മേൽ സൂചിപ്പിച്ച സാഹചര്യങ്ങളിലെല്ലാം പ്രോട്ടീൻ ഉചിതമായ രീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത് എന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട് ഇതിലൂടെ ഞാൻ പ്രസ്തുത ലെക്ച്ചർ ഉപസംഹരിക്കുകയാണ് പ്രോട്ടീനുകളുടെ ഫോൾഡിങ് സിഗ്നേച്ചറുകൾ നിർണ്ണയിക്കുന്നതിൽ നാം നേരിടേണ്ടി വന്നേക്കാവുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തുകഴിഞ്ഞിരിക്കുന്നു വരും ക്ലാസ്സുകളിൽ മേല്പറഞ്ഞ ഫോൾഡിങ് സിഗ്നേച്ചറുകളെ ഉചിതമായ ഡൊമെയ്നുകളിലേക്ക് നിയോഗിക്കുന്നതെങ്ങനെ എന്ന് നമ്മൾ വിശദമായി പഠനം നടത്തുന്നതാണ്